ടു പോർട്ടിന്റെ ആകെ സ്വഭാവസവിശേഷതകളായ വലിയ സിഗ്നലിൽ എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇപ്പോൾ എന്താണ് ഉള്ളത് ഞങ്ങൾക്ക് y11 സമം പൂജ്യം y22 സമം പൂജ്യം y12 സമം പൂജ്യം y21 കഴിയുന്നത്ര വലുതായിരിക്കണം ഇപ്പോൾ വലിയ സിഗ്നൽ സ്വഭാവം ഈ നാല് ഗ്രാഫുകളാൽ വിവരിക്കാനാകും അവിടെ വേരിയബിളുകളിലൊന്ന് x ആക്സിസിലും മറ്റേ വേരിയബിൾ സ്ഥിരമായും അല്ലെങ്കിൽ അത് പരാമീറ്ററായി വ്യത്യാസപ്പെടുന്നു ഇപ്പോൾ ഈ ചെറിയ സിഗ്നലുകൾ പരാമീറ്ററുകൾ ഈ സ്വഭാവസവിശേഷതകളുടെ സ്ലോപ്പുകളാണ് ഉദാഹരണത്തിന് I1 വേഴ്സസ് V1 ന്റെ സ്ലോപ് y11 ആണ് I1 വേഴ്സസ് V2 ന്റെ സ്ലോപ് y11 ആണ് I2 വേഴ്സസ് V1 ന്റെ സ്ലോപ് y22 ആണ് കൂടാതെ I2 വേഴ്സസ് V2 ന്റെ സ്ലോപ് y22 ആണ് ഇപ്പോൾ y11 പൂജ്യത്തിന് തുല്യം എന്നതിന്റെ അർത്ഥമെന്താണ് ഇവ ചില ഓപ്പറേറ്റിംഗ് പോയിന്റുകൾക്ക് ചുറ്റുമാണ് ഉള്ളത് നിങ്ങൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ശരിയായി തിരഞ്ഞെടുക്കണം കാരണം നോൺ ലീനിയർ ah ഉപകരണത്തിന്റെ മൊത്തത്തിലുള്ള സ്വഭാവം എന്തും ആകാം ചില ഓപ്പറേറ്റിംഗ് പോയിന്റിന് ചുറ്റുമാണ് ഞങ്ങൾക്ക് ഈ നിയന്ത്രണങ്ങൾ ഉണ്ടാകേണ്ടത് അപ്പോൾ പൂജ്യത്തിന് തുല്യമായ y11 എന്നത് എന്താണ് അർത്ഥമാക്കുന്നത് ഈ സ്വഭാവസവിശേഷതകൾ I1 V1 എന്നിവ ചില ഓപ്പറേറ്റിംഗ് പോയിന്റുകൾക്ക് ചുറ്റും പരന്നതാണെന്നാണ് അതിനാൽ ഇതാണ് ഇവിടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയട്ടെ അതായത് I1 vs V1 ന്റെ സ്ലോപ് പൂജ്യമാണ് അതുപോലെ y12 പൂജ്യമായതിനാൽ I1 vs V2 ന്റെ സ്ലോപ്പും പൂജ്യമാണ് ഇപ്പോൾ V1 ഉം V2 ഉം മാത്രമാണ് വേരിയബിളുകൾ അതിനാൽ ഇവിടെ ചില ഓപ്പറേറ്റിംഗ് പോയിന്റ് y11 പൂജ്യമാണ് അതായത് V1 നൊപ്പം I1 ന്റെ വ്യത്യാസം നിസ്സാരമാണ് ഇത് പൂജ്യമാണ് I1 വേഴ്സസ് V2 ന്റെ വ്യതിയാനവും പൂജ്യമാണ് കാരണം y12 പൂജ്യമാണ് അതിനാൽ ഈ കറന്റ്ലെ I1 സ്ഥിരമാണ് അതായത് ചില ഓപ്പറേറ്റിംഗ് പോയിന്റുകൾക്ക് ചുറ്റുമുള്ള V1 V2 എന്നിവയിൽ നിന്ന് സ്വതന്ത്രമാണ് അതിനാൽ ഈ രണ്ട് ചെറിയ സിഗ്നൽ പാരാമീറ്ററുകൾ അതാണ് സൂചിപ്പിക്കുന്നത് ചില ഓപ്പറേറ്റിംഗ് പോയിന്റിൽ മാത്രമേ ഇത് ശരിയാകൂ എല്ലായിടത്തും ഇത് ശരിയാകണമെന്നില്ല എന്നത് വീണ്ടും ഓർമ്മിക്കേണ്ടതാണ് ചില ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ഇത് ശരിയാണെങ്കിൽ ഞങ്ങൾ ആ ഓപ്പറേറ്റിംഗ് പോയിന്റ് തിരഞ്ഞെടുക്കണം അതുപോലെ തന്നെ y21 വളരെ വലുതാണ് അതിനാൽ I2 വേഴ്സസ് V1 ന്റെ വ്യതിയാനം എന്താണ് അർത്ഥമാക്കുന്നത് I2 വേഴ്സസ് V1 ന്റെ ചരിവ് ചില ഓപ്പറേറ്റിംഗ് പോയിന്റിന് ചുറ്റും വളരെ വലുതായിരിക്കണം അത് കഴിയുന്നത്ര കുത്തനെയുള്ളതായിരിക്കണം കൂടാതെ y22 പൂജ്യമാണ് അതിനാൽ ഓപ്പറേറ്റിംഗ് പോയിന്റിന് ചുറ്റും സമാനമായ ഒരു സ്വഭാവസവിശേഷതയുള്ള I2 വേഴ്സസ് V2 എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ അത് പറയുന്നത് I2 വേഴ്സസ് V1 വളരെ കുത്തനെയുള്ളതായിരിക്കണം അതേസമയം I2 വേഴ്സസ് V2 വളരെ ആഴം കുറഞ്ഞതായിരിക്കണം അതായത് I2 ചില ഓപ്പറേറ്റിംഗ് പോയിന്റിൽ V2 നെ ആശ്രയിക്കരുത് അടിസ്ഥാനപരമായി ഈ ഗ്രാഫുകൾ ah വരച്ചതാണെന്ന് ഞാൻ പറഞ്ഞു ഉദാഹരണത്തിന് I2 വേഴ്സസ് V1 ഒരു പാരാമീറ്ററായി V2 ഉപയോഗിച്ചാണ് വരച്ചിരിക്കുന്നത് കാരണം I2 V2 നൊപ്പം മാറില്ല അതിനാൽ അടിസ്ഥാനപരമായി ഈ സ്വഭാവം I2 നും V1 എന്നിവയ്ക്കും V2 ൽ നിന്ന് സ്വതന്ത്രമായിരിക്കണം കാരണം ഈ ഓപ്പറേറ്റിംഗ് പോയിന്റിന് ചുറ്റും വ്യക്തമായി V2 നൊപ്പം I2 മാറുന്നില്ലെന്ന് നമുക്കറിയാം മറുവശത്ത് ഈ I2 വേഴ്സസ് V2 ഗ്രാഫിന് V1 ആണ് പരാമീറ്റർ വളരെ വലിയ y21 ലഭിക്കുന്നതിന് V1 നൊപ്പം I2 വളരെ കുത്തനെ മാറുന്നുവെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾ ഇവിടെ ഒരു പാരാമെട്രിക് പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ V1 ന്റെ ഒരു പ്രത്യേക മൂല്യത്തിന് നിങ്ങൾക്ക് ഇത് ലഭിക്കും V1 ന്റെ മറ്റൊരു മൂല്യത്തിന് നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു കറന്റ് ഉണ്ടാകും പക്ഷേ അത് ഇപ്പോഴും പരന്നതായിരിക്കും അതായത് V2 ൽ നിന്ന് സ്വതന്ത്രമാണ് അതിനാൽ V1 ആണെങ്കിൽ കറന്റ് വ്യത്യസ്തമായിരിക്കും എന്നാൽ I2 വേഴ്സസ് V2 ന്റെ വ്യതിയാനം പരന്നതായിരിക്കും അതായത് ഈ ചരിവ് പൂജ്യമായിരിക്കും അതിനാൽ ഞങ്ങൾ ചെയ്തത് ചെറിയ സിഗ്നൽ പാരാമീറ്ററുകളിലെ നിയന്ത്രണങ്ങൾ വിലയിരുത്തുകയും അതിൽ നിന്ന് വലിയ സിഗ്നൽ പാരാമീറ്ററുകൾ എന്തായിരിക്കണമെന്ന് അനുമാനിക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങൾ ഏത് ഉപകരണം നിർമ്മിക്കുന്നു എന്നത് പരിഗണിക്കാതെ തന്നെ ഇവ ആംപ്ലിഫയറുകളുടെ നല്ല സ്വഭാവമാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പുതിയ ഉപകരണം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഗെയിൻ പരമാവധിയാക്കാൻ ഈ കാര്യങ്ങൾ പിന്തുടരുന്ന ഒരു ഉപകരണം നിങ്ങൾ കണ്ടുപിടിക്കണം തീർച്ചയായും y പാരാമീറ്ററുകൾ തിരഞ്ഞെടുക്കുന്നതിനുപകരം നിങ്ങൾക്ക് മറ്റ് ചില പാരാമീറ്ററുകൾ തിരഞ്ഞെടുത്ത് ആ പാരാമീറ്ററുകൾ അനുസരിച്ച് ഗെയിൻ പരമാവധിയാക്കാൻ ശ്രമിക്കാം എന്നാൽ ഗുണപരമായ സ്വഭാവം സമാനമായിരിക്കും ഈ സ്വഭാവസവിശേഷതകൾ അർത്ഥമാക്കുന്നത് ഈ പരാമീറ്ററുകൾ 11 12 22 എന്നിവ ഏതാണ്ട് പൂജ്യമായിരിക്കും കൂടാതെ രണ്ട് സ്വഭാവം വളരെ കുത്തനെ വ്യത്യാസപ്പെട്ടിരിക്കും അതിനാൽ ഇതിനർത്ഥം രണ്ടാമത്തെ പോർട്ട് ആദ്യത്തെ പോർട്ടിനോട് ശക്തമായി പ്രതികരിക്കുകയും മറ്റെല്ലാ പ്രതികരണങ്ങളും വളരെ ചെറുതായിരിക്കുകയും വേണം ഈ ഭാഗം വ്യക്തമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു MOS ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ബൈപോളാർ ട്രാൻസിസ്റ്റർ പോലെയുള്ള ഞങ്ങളുടെ യഥാർത്ഥ ഉപകരണങ്ങൾ അതിന്റെ അനുയോജ്യമായ രൂപത്തിൽ ഇതിനോട് പൊരുത്തപ്പെടുന്നതായി നിങ്ങൾ പിന്നീട് കാണും അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോകാൻ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ അതും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സാമാന്യവൽക്കരണം നൽകുന്നു നിങ്ങൾ ബൈപോളാർ ട്രാൻസിസ്റ്ററുകളോ MOS ട്രാൻസിസ്റ്ററുകളോ പറ്റിനിൽക്കേണ്ടതില്ല മറ്റേതെങ്കിലും ഉപകരണം സ്വഭാവം നോക്കിയാൽ മാത്രമേ വരുന്നുള്ളൂ അത് ഒരു നല്ല ആംപ്ലിഫയർ ഉപകരണം ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പറയാനാകും